ഹലോ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിലെ അവയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരം സാങ്കേതികവിദ്യകളും അതിനാൽ നമ്മൾ കണ്ടതുപോലെ ഇത് തികച്ചും പുതിയ സാങ്കേതികവിദ്യയോ പുതിയ കണ്ടുപിടുത്തമോ ആയിരിക്കില്ല പക്ഷേ ഇത് എല്ലാ പുതുമകളെയും വരാനിരിക്കുന്ന എല്ലാ പുതിയ സമീപനങ്ങളെയും നോക്കാൻ ശ്രമിക്കുന്നു ഇന്ന് നമ്മൾ നോക്കുന്ന മറ്റൊരു പുതിയ വികാസം കണ്ടെയ്നർ നിർമ്മിക്കുന്നതിൽ വെല്ലുവിളികളുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ ഇൻസ്റ്റാളേഷനിൽ വികസനവും മറ്റ് സംഭവവികാസങ്ങളുമാണ് ഇപ്പോൾ വരാനിരിക്കുന്ന മറ്റൊരു പ്രശ്നം ഇവയിലേക്കുള്ള ഒരു പ്രധാന പ്രചോദനമാണിത് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് വളരെ വിഭവസമൃദ്ധമായ ഉപകരണങ്ങളുണ്ട് നിങ്ങളുടെ മൊബൈൽ ഒരു പ്രധാന വെല്ലുവിളിയായി മാറുകയാണ് അതിനാൽ ഇവിടെ കണ്ടെയ്നർ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ക്ലൌഡ് സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നതിലൂടെ വളരെ പ്രചാരത്തിലായ അത്തരം ഒരു കണ്ടെയ്നർ സാങ്കേതികവിദ്യ നോക്കുന്നതിനും ഇത് സഹായിക്കും അതിനാൽ നിങ്ങൾ ഡോക്കറിൽ ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും

അതിനാൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൃത്യമായി കണ്ടെയ്നർ പശ്ചാത്തലത്തിൽ അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാനുള്ള ഈ ദിവസത്തെ രഹസ്യവാക്ക് ഇതാണ് കാര്യങ്ങളുടെ ദ്രുത സാമ്യത ഉണ്ടാക്കുന്നതിനും ഇതിൽ എന്താണ് ഉള്ളതെന്ന് മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കും ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടിംഗ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത് വീണ്ടും വികസിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ധാരാളം മനുഷ്യശക്തി ഉപയോഗിക്കുന്നു എന്നതാണ് അതിനാൽ ഒരു വശത്ത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആനുകാലികമായി നിങ്ങൾ പുതിയ സിസ്റ്റങ്ങളും അനന്തമായ കാര്യങ്ങൾ എന്നിവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എല്ലാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരു അപ്ലിക്കേഷൻ അയയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പുനർസംയോജനം അല്ലെങ്കിൽ പുനർ ക്രമീകരിക്കാൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ അത് കഠിനമായ ജോലിയാണ് അതിനാൽ നമ്മൾ ഇന്റർഓപ്പറബിളിറ്റി ആണ്

അതിനാൽ ഞാൻ ഈ മാട്രിക്സിൽ ലോകവും നേടേണ്ടതുണ്ട് ഇത് ഒരു ഉൽപ്പന്നത്തെ മികച്ച രീതിയിൽ വാണിജ്യവത്ക്കരിക്കുന്നതിലേക്ക് നയിക്കുന്നു ഒരു ഉൽപ്പന്നത്തിന്റെ വിപണനക്ഷമത മെച്ചപ്പെട്ട രീതിയിലേക്കാണ് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ സെൻസർ അധിഷ്ഠിത സാങ്കേതികവിദ്യകൾ നോക്കുകയാണെങ്കിൽ സെൻസർ ആപ്ലിക്കേഷൻ ഒരു പ്രധാന വെല്ലുവിളിയായി മാറുന്നു അതിനാൽ ഈ ഡാറ്റ സംവിധാനങ്ങൾ എനിക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ചില കാര്യങ്ങൾ ഇവയാണ് ഇപ്പോൾ നമ്മൾ ചില സാമ്യതകൾ കാണാൻ ശ്രമിച്ചാൽ ഷിപ്പിംഗ് വരെ കപ്പൽ കയറ്റാൻ ആഗ്രഹിക്കുന്നത് ഇവ വിവിധ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മാറ്റുന്നു ഇത് ചില ട്രക്കുകളിലും നിന്ന് നിർമ്മിക്കുകയും ക്രെയിൻ ഉപയോഗിച്ച് കപ്പലിൽ കയറ്റി അയയ്ക്കുകയും ചെയ്യാം ഭൂഖണ്ഡത്തിലുടനീളം അതിനാൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ട് ഈ ഉൽപ്പന്നങ്ങൾ അയയ്ക്കുന്നതിൽ വിവിധ സാങ്കേതിക വിദ്യകൾ ഉണ്ട് ഞാനത് സ്റ്റാൻഡേർഡ് മാർഗ്ഗം ഞാൻ നടത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ പ്രവർത്തിക്കില്ല അതിനാൽ അവർ എന്താണ് കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള ഒരു ഡോക്കിംഗ് സ്റ്റേഷനോ കൊണ്ടുപോകുകയോ ചെയ്യാം ഇപ്പോൾ ഷിപ്പിംഗ് കണ്ടെയ്നർ അത് എങ്ങനെയാണ് കയറ്റി അയയ്ക്കുന്നത് അല്ലെങ്കിൽ എവിടെ സൂക്ഷിക്കുന്നു എന്നതിലേക്ക് കൂടുതൽ ചായ്വുള്ളതാണ് ഉൽപ്പന്നം പോലെ സംഭരിക്കുന്ന രീതിയാണ് കണ്ടെയ്നറിനുള്ളിൽ ഒരു പിയാനോയ്ക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ഡോക്കറിനെക്കുറിച്ച് സംസാരിക്കും ഇത് ഒരു ഡോക്കർ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ എന്റെ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കും അതിനാൽ ആ കണ്ടെയ്നർ പ്രധാനമാണ് അതിനാൽ ഇത്തരത്തിലുള്ള തത്ത്വചിന്ത ഞങ്ങളെ വികസിപ്പിക്കാനും എവിടെനിന്നും കയറ്റി അയയ്ക്കാനും സഹായിച്ചു എവിടെയും വികസിപ്പിക്കുക നിർമ്മിക്കുക കയറ്റി അയയ്ക്കുക അതിനാൽ ഇത്തരത്തിലുള്ള സാങ്കേതികവിദ്യ അങ്ങേയറ്റം ജനപ്രിയമാവുകയും സ്ഥിരസ്ഥിതി നിലവാരമാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മൾക്ക് തോന്നുന്നു കാരണം ഒരു പ്രത്യേക ബാങ്കിംഗ് ആപ്ലിക്കേഷനോ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് ഒരു കണ്ടെയ്നർ സെർവറിലോ പ്രവർത്തിക്കണം ഇത്തരത്തിലുള്ള പോർട്ടബിലിറ്റി ഉപയോഗിക്കുന്നു അതിനാൽ അടിസ്ഥാന സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ കണ്ടെയ്നറുകൾ പോലും അത് തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും കാരണം ഇത് അവസാനമായി അയച്ച പാത്രത്തിലേക്ക് യോജിക്കണം ഒരാൾക്ക് എവിടെയും ഡോക്കർ പാത്രങ്ങൾ ഭാരം കുറഞ്ഞതിനാൽ അവ എളുപ്പത്തിൽ അളക്കാനാവും അത് ഒരു പ്രധാന ഘടകമാണ് ഇതൊരു ഭാരം കൂടിയ കാര്യമാണെങ്കിൽ വിഭവ ആവശ്യകത വളരെ കൂടുതലായിരിക്കും പോർട്ടബിലിറ്റി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഭാരം കുറഞ്ഞതിനാൽ ഇത് വളരെ എളുപ്പമാണ് ഘടകങ്ങളുടെ വ്യത്യസ്ത വകഭേദങ്ങളുണ്ട് അതിനാൽ മാക്കിനായുള്ള ഒരുതരം സാമ്യം ഡോക്കർ ഹബ് വിവിധ ഘടകങ്ങൾ നിലവിലുണ്ട് അതിനാൽ പരമ്പരാഗത വെർച്വലൈസേഷൻ പ്രവർത്തിപ്പിക്കാനും കഴിയും ഇതാണ് വിർച്വലൈസേഷന്റെ

ഒരാൾ നിലവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ മുകളിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഹോസ്റ്റുചെയ്യുക ഇത് ഒരു പരമ്പരാഗത വെർച്വലൈസേഷൻ പ്രവൃത്തിയാണ് ഈ ഡോക്കർ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഇവിടെ വിന്യസിക്കാൻ കഴിയും

ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ചില വ്യത്യാസങ്ങളുണ്ട് അതിനാൽ കോഡും മറ്റ് കണ്ടെയ്നറുകളുമായി പങ്കിടാനും കഴിയും ഓരോന്നും ഉപയോക്തൃ സ്ഥലത്ത് ഒറ്റപ്പെട്ട പ്രക്രിയകളായി പ്രവർത്തിക്കുന്നു വെർച്വൽ മെഷീനുകളേക്കാൾ കുറഞ്ഞ ഇടം കണ്ടെയ്നർ എടുക്കുന്നു കണ്ടെയ്നർ ആവശ്യമാണ് മാത്രമല്ല ഇത് കുറഞ്ഞ ഭാരം ആയതിനാൽ തൽക്ഷണം ആരംഭിക്കാനും കഴിയും അതിനാൽ തിരികെ വരുന്ന മറ്റ് ചില ആശയങ്ങൾ ഉണ്ട് അതിനാൽ ഈ സന്ദർഭത്തിലെ ഒരു ഇമേജ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എല്ലാം ഉൾപ്പെടുന്നു അതിനാൽ ഇത് പ്രധാനമാണ് അതിനാൽ ഇത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഭാരം കുറഞ്ഞ സ്റ്റാൻഡലോൺ എക്സിക്യൂട്ടബിൾ പാക്കേജാണ് പരിതസ്ഥിതിയിൽ നിന്ന് സ്വതന്ത്രമാണ് അതിനാൽ ഹോസ്റ്റ് മെഷീന്റെ കേർണലിൽ എടുക്കുന്നില്ല അതിനാൽ നിങ്ങൾ കണ്ടെയ്നറുകളുംഉണ്ട് വിർച്വൽ മെഷീൻ മാത്രമാണ് ഹോസ്റ്റ് ഒഎസിൽ എവിടെയും പ്രവർത്തിക്കുന്നു അതിനാൽ അതിനർത്ഥം ഈ ഹോസ്റ്റ് മെഷീനുമായി ഇതിന് ബന്ധമില്ല അതിനാൽ ഇതിനർത്ഥം എന്റെ കണ്ടെയ്നർ പരിസ്ഥിതി ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ ചെറിയ പരിഷ്ക്കരണം നടത്താം കണ്ടെയ്നർ എയും തലത്തിൽ ചെയ്യാൻ കഴിയും അതിനാൽ ഡോക്കറിന്റെപ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ എല്ലാം ഒരുമിച്ച് നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ക്ലൌഡിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള സേവനം പ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനാൽ വളരെയധികം ആവശ്യങ്ങൾ ഉണ്ട് ആവശ്യകതകൾ ഉണ്ട് ആപ്ലിക്കേഷൻ ലെവൽ വെർച്വലൈസേഷൻ സ്ഥാപിക്കാൻ കഴിയും

കുറച്ച് പദങ്ങൾ ഉണ്ട് അവയിൽ ചിലത് നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ട്

അതിനാൽ ഇമേജുകൾ നീക്കംചെയ്യുന്നു ഡോക്കർ സൃഷ്ടിക്കുക

ഇവയിൽ പലതും ഒരുതരം ലിനക്സ് കമാൻഡുകളാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം അതിനാൽ ഈ സാഹചര്യത്തിലും കണ്ടെയ്നറിനായി ഉണ്ടാക്കി വ്യത്യസ്ത ഉപകരണങ്ങളിൽ പ്രവർത്തിപ്പിക്കുക അതിനാൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഡോക്കർഫയൽ ഹബിന് സ്വയമേവ ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയും ഡോക്കർ യാന്ത്രികമായി നിർമ്മിച്ചിരിക്കുന്നു നിർമ്മിക്കാനുള്ള ഉറവിടം ഗിട്ഹബിൽ ലഭ്യമാണ് അതിനാൽ ഈ ഡോക്കറിന്റെ ഉപയോഗിക്കുന്നു മികച്ച കമ്പ്യൂട്ട് ഡെൻസിറ്റി ഉപയോഗിക്കുന്നു

അതിനാൽ ഡോക്കറിന്റെ കൂടുതൽ ഉപയോഗപ്രദമാക്കുകയും വ്യത്യസ്ത പരിതസ്ഥിതികളിൽ കൂടുതൽ സ്വീകാര്യമാക്കുകയും ചെയ്യുന്നു